ആശംസകൾ മൊഡ്യൂൾ 3 യൂണിറ്റ് 7 ലേക്ക് സ്വാഗതംഇത് മുൻ യൂണിറ്റിന്റെ തുടർച്ചയാണ് ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ അധ്യാപകന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംയോജിപ്പിക്കാവുന്ന ഘടകങ്ങളാണ് ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ കൂടാതെ പരിഗണനയിലുള്ള പ്രത്യേക വിഷയത്തെ ആശ്രയിച്ച് അല്ലെങ്കിൽ അദ്ദേഹം നിഷ്കർഷിക്കുന്ന കോഴ്സ് ഫലത്തെ ആശ്രയിച്ചിരിക്കുന്നു മറ്റ് സാഹചര്യപരമായ ഘടകങ്ങളെയും ആശ്രയിച്ച് അധ്യാപകൻ ഈ ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങളെ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംയോജിപ്പിക്കുകയോ ക്രമീകരിക്കുകയോ ചെയ്യും മുമ്പത്തെ യൂണിറ്റിൽ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളും ഫീഡ്ബാക്കും സമാനതകളും ഉപമകളും എന്നിങ്ങനെയുള്ള ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ നമ്മൾ പരിശോധിച്ചു നമ്മൾ നോക്കിയ രണ്ട് ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങളാണ് ഇവ ഈ യൂണിറ്റിൽ നമ്മൾ മറ്റുചില ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ പരിശോധിക്കും ഗ്രാഫിക് ഓർഗനൈസറുകൾ കുറിപ്പ് സൃഷ്ടിക്കൽ സംഗ്രഹിക്കൽ മുൻ അറിവ് സജീവമാക്കുക ഒരാൾക്ക് ഇതിൽ കൂടുതൽ സൃഷ്ടിക്കാൻ കഴിയും അല്ലെങ്കിൽ മറ്റ് നിരവധി നിർദ്ദേശ ഘടകങ്ങൾ പരിഗണിക്കാം അവയിൽ ഓരോന്നും നമ്മൾ അവതരിപ്പിക്കുന്നില്ല മുമ്പത്തെ യൂണിറ്റിൽ നമ്മൾ ഏകദേശം 19 ഘടകങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി അത് സമഗ്രമല്ല ഒരാൾക്ക് സ്വന്തം ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ സൃഷ്ടിക്കാനും കഴിയും കാര്യമായ മാറ്റമുണ്ടാക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നമ്മൾ ഇവ എടുക്കുന്നത് വിദ്യാർത്ഥി നേടിയെടുക്കാൻ ശ്രമിക്കുന്ന അറിവുമായി ഇടപഴകുന്ന കാര്യങ്ങളാണിവ ഇത് ഒരു ക്ലാസ് മുറിയിൽ നിഷ്ക്രിയമായി കേൾക്കുന്നതിനപ്പുറമാണ് ഗ്രാഫിക് ഓർഗനൈസറുകൾ ഗ്രാഫിക് ഓർഗനൈസറുകൾ ഉള്ളടക്കം ഗ്രാഫിക്കായി ഓർഗനൈസ് ചെയ്യുന്നു ഇവിടെയുള്ള ഉള്ളടക്കം എന്നാൽ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് ഇത് ഒരു മുഴുവൻ കോഴ്സും ആകാം അല്ലെങ്കിൽ അത് ഒരൊറ്റ കോഴ്സ് ഔട്ട്കം മാത്രമായിരിക്കാം അല്ലെങ്കിൽ ഒരു കോഴ്സ് ഫലത്തിൽ നിന്നുള്ള കഴിവ് അല്ലെങ്കിൽ ഉള്ളടക്കം ഒരൊറ്റ ആശയം മാത്രമായിരിക്കാം ഇത് ഒരു നടപടിക്രമമാകാം ഉള്ളടക്കം എന്ന വാക്ക് നമ്മൾ ഇവിടെ വളരെ സാധാരണമായി വ്യാഖ്യാനിക്കുന്നു ആശയങ്ങൾ ഓർഗനൈസുചെയ്യാനും ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം കാണാനും വിവരങ്ങൾ നിലനിർത്താൻ സഹായിക്കാനും ഗ്രാഫിക് ഓർഗനൈസർ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു ഇൻസ്ട്രക്ഷനിലെ നമ്മുടെ പ്രാഥമിക ലക്ഷ്യം നിങ്ങൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കണമെന്ന് മാത്രമല്ല അവർ ആ അറിവ് നിലനിർത്തണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്രാഫിക് ഉപകരണങ്ങളെ ആശ്രയിച്ച് അവ വിവരങ്ങൾ സൂക്ഷിക്കുന്നത് ഗണ്യമായി സുഗമമാക്കും ഏത് ഇൻസ്ട്രക്ഷന്റെയും പ്രാഥമിക ലക്ഷ്യം അതാണ് അനുബന്ധ വിവരങ്ങൾ കാണിക്കുന്നതിൽ ഗ്രാഫിക് ഓർഗനൈസർ മികച്ചതാണ് ഒന്ന് മറ്റൊന്നുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഈ വിഷ്വൽ പ്രാതിനിധ്യം എല്ലാ വിഭാഗങ്ങളിലും ഉപയോഗിക്കാനും അവയുടെ ഉപയോഗം എളുപ്പവും ആണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾക്ക് സ്കെച്ച് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഗ്രാഫിക് പ്രാതിനിധ്യങ്ങൾ സൃഷ്ടിക്കാൻ ഒരാൾക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠിത ഉപകരണം ഉപയോഗിക്കാം ക്ലാസ് മുറിയിൽ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള മാർഗമായി ഈ ഗ്രാഫിക് പ്രാതിനിധ്യങ്ങൾ അധ്യാപകർക്ക് ഉപയോഗിക്കാൻ കഴിയും ഇത് ഒരു കൂട്ടം സ്ലൈഡുകളുടെ ഭാഗമാകാം കാരണം ഇത് ഒരു ഓൺലൈൻ കോഴ്സിലും അവതരിപ്പിക്കാൻ കഴിയുമെന്ന് നമുക്ക് കാണാം പൂർണ്ണമായും പുതിയ ഗ്രാഫിക് അവതരണം സൃഷ്ടിക്കുകയോ ഭാഗികമായി സൃഷ്ടിച്ച ഗ്രാഫിക്സ് പൂർത്തിയാക്കുകയോ ചെയ്യുന്ന ഒരു പ്രവർത്തനമായി വിദ്യാർത്ഥികൾക്ക് അവ ഉപയോഗിക്കാൻ കഴിയും ഒരു അധ്യാപകന് യഥാർത്ഥത്തിൽ അപൂർണ്ണമായ ഒന്ന് നൽകാനും പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടാനും കഴിയും അതായത് ഒരു വിദ്യാർത്ഥി ഒരു പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു എഴുത്ത് ആസൂത്രണം ചെയ്യാനുള്ള ഒരു മാർഗമായി വിദ്യാർത്ഥികൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും അതായത് നിങ്ങൾ ഓർഗനൈസുചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടോ ഉപന്യാസമോ എഴുതേണ്ടതുണ്ടെങ്കിൽ അത് ഗ്രാഫിക് രീതിയിൽ ആസൂത്രണം ചെയ്യാൻ കഴിയും നിരവധി ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പോലും ചില ഡയഗ്രമാറ്റിക് അവതരണം ഉപയോഗിക്കാം ഗ്രാഫിക് ഓർഗനൈസർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് ലക്ഷ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ ചർച്ച ചെയ്യുകയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ധാരണ മറ്റുള്ളവർക്ക് കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പരിഗണനയിലുള്ള ആശയങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങിനെഅതായത് ഇത് ലക്ഷ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ചെറിയ വാചകം മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഡയഗ്രം നൽകുന്നത് നന്നായി ഫലപ്രദമാകുന്നു തുടർന്ന് വിഷയത്തെക്കുറിച്ച് അറിയുമ്പോൾ വിശദാംശങ്ങൾ ചേർക്കാൻ അവരോട് ആവശ്യപ്പെടുക നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം കാണും ഒരു അധ്യാപകന് ഗ്രാഫിക് ഓർഗനൈസ് ചെയ്യാനായി സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റുകൾ സൃഷ്ടിക്കാനോ ഉപയോഗിക്കാനോ കഴിയും അവൻ ഉപയോഗിക്കാൻ നിർദേശിക്കുന്നു കൂടാതെ സമയം ലാഭിക്കാൻ അവ ഉപയോഗിക്കാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നു ഗ്രാഫിക് ഓർഗനൈസ് ചെയ്യാൻ നിരവധി ടെംപ്ലേറ്റുകൾ ഇൻറർനെറ്റിൽ ലഭ്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ടെംപ്ലേറ്റ് സൃഷ്ടിക്കാൻ കഴിയും നിങ്ങൾക്ക് ഇത് വിദ്യാർത്ഥികളുമായി പങ്കിടാൻ കഴിയും മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് അവ ഉപയോഗിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഒരാൾക്ക് ഗൂഗിൾ ഡോക്സ് ഉപയോഗിക്കാം പങ്കെടുക്കുന്ന എല്ലാവർക്കുമായി ഇത് നൽകുക കൂടാതെ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അവർക്ക് അതിൽ എഴുതാനും കഴിയും ഗ്രാഫിക് ഓർഗനൈസറിന്റെ പരമാവധി ഇഫക്റ്റിനായി വിദ്യാർത്ഥി പട്ടികകൾ ഗ്രാഫുകൾ അല്ലെങ്കിൽ പൈ ചാർട്ടുകൾ എന്നിവയുടെ രൂപത്തിൽ അവരുടെ സ്വന്തം ഗ്രാഫിക്സ് സൃഷ്ടിക്കണം ഗ്രാഫിക് ഓർഗനൈസർ സൃഷ്ടിക്കുന്നതിന് സോഫ്റ്റ്വെയർ ടൂളുകൾ പ്രൊപ്രൈറ്ററി അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ടൂളുകൾ ലഭ്യമാണ് ഉദാഹരണത്തിന് മുമ്പത്തെ മൊഡ്യൂളിൽ നമ്മൾ ഹ്രസ്വമായി പരാമർശിച്ച കോൺസെപ്റ്റ് മാപ്പ് നമ്മൾ വീണ്ടും അവതരിപ്പിക്കും ഗ്രാഫിക് ഓർഗനൈസറിനുള്ള ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉപകരണമാണ് അതുപോലെ നിങ്ങൾക്ക് മൈൻഡ് മാപ്പുകൾക്കായി ഒരു ഉപകരണം ഉണ്ട് അങ്ങനെ പലതും നമുക്ക് ചില ലളിതമായ ഗ്രാഫിക് ഓർഗനൈസർ നോക്കാം ഇവിടെ ഇത് വളരെ വർണ്ണശബളമാണ് ഇവിടെയുള്ളതെല്ലാം ഒരു സുപ്രധാന ആശയമുണ്ട് കൂടാതെ അതിന്റെ ഭാഗമായി നിരവധി ആശയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ബോക്സിൽ യഥാർത്ഥത്തിൽ ഒരു വാചകമായി ഒരു സുപ്രധാന ആശയം എഴുതാൻ കഴിയും അതിനാൽ ഓരോരുത്തർക്കും ഓരോ ആശയം എഴുതാൻ കഴിയും അല്ലെങ്കിൽ അതിനുമുകളിൽഒരുതരം ഇൻഡന്റ് ഫാഷനിൽ ശ്രേണിപരമായി എഴുതാൻ നിങ്ങൾക്കും കഴിയും കൂടാതെ ഏത് വിഷയവും ഇതുപോലെ വിശദീകരിക്കാം ഇത് വാചകമാണെങ്കിലും ഇൻഡന്റേഷൻ വഴി നിങ്ങൾ വിവരങ്ങൾ ഗ്രാഫിക്കായി ഓർഗനൈസുചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആശയങ്ങൾ ഉണ്ട് പിന്നെ മറ്റൊന്ന് നമ്മൾ വെൻ ഡയഗ്രം എന്ന് വിളിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇത് പരിചിതമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഓരോ സർക്കിളും ഒരു ആശയത്തെ പ്രതിനിധീകരിക്കുന്നു രണ്ട് സർക്കിളുകൾക്കിടയിൽ ചില ഓവർലാപ്പുകളുണ്ട് വെൻ ഡയഗ്രം ഉപയോഗിച്ച് ആശയം എന്താണെന്നും അവയെ താരതമ്യം ചെയ്യാനും ശരിക്കും പര്യവേക്ഷണം ചെയ്യാനും ഇത് ഉപയോഗിക്കാം ലളിതമായ ഒരു പരീക്ഷണത്തെ പ്രതിനിധീകരിക്കുന്നതിന് മറ്റൊരു വഴിയുണ്ട് അതായത് നിങ്ങൾ ലബോറട്ടറിയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു പരീക്ഷണം നിങ്ങൾ ചെയ്യേണ്ട ഘട്ടങ്ങൾ എന്താണെന്ന് ഇവിടെ നിങ്ങൾ പറയുന്നു 1 2 3 4 മുതലായവ പിന്നെ ഞാൻ എന്താണ് കാണാൻ പോകുന്ന റിസൾട്സ് ഞാൻ ഫലങ്ങൾ അളക്കുന്നു ഞാൻ ഈ ഫലങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങളായി എഴുതുകയും തരംതിരിക്കുകയും ചെയ്യും തുടർന്ന് ഓരോ വിഭാഗത്തിനും ഞാൻ ഒരു നിഗമനത്തിലെത്തും ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ നിഗമനം ഇതുപോലെ എഴുതുന്നു അതിനാൽ ഒരു പരീക്ഷണം എങ്ങനെ ചെയ്യാമെന്ന് പ്രതിനിധീകരിക്കുന്നതിനുള്ള ഒരു ഗ്രാഫിക് മാർഗമാണിത് മറ്റൊന്ന് ഫിഷ്ബോൺ ഡയഗ്രം ആണ് ഇതിനെ കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രം അല്ലെങ്കിൽ ഇഷികാവ ഡയഗ്രം എന്നും വിളിക്കുന്നു ഇത് തുടക്കത്തിൽ ഒരു മാനേജ്മെന്റ് തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഉപയോഗിച്ചിരുന്നു മൂലകാരണങ്ങൾ തിരിച്ചറിയുന്നതിനായി ആ പ്രശ്നത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി അത് വർഗ്ഗീകരിക്കുന്നതിനുള്ള ഒരു വിഷ്വലൈസേഷൻ ഉപകരണമാണിത് ഉദാഹരണത്തിന് ഒരു പ്രശ്നത്തെ പ്രതിനിധീകരിക്കുന്നതിന് നിങ്ങൾ ഒരു നട്ടെല്ല് വരയ്ക്കുന്നു സാധ്യമായ നിരവധി കാരണങ്ങളുണ്ട് ഓരോ പ്രധാന കാരണവും ഒരു നട്ടെല്ല് ആയിരിക്കും എനിക്ക് ഓരോ കാരണവും സാധ്യമായ നിരവധി ഉപ കാരണങ്ങളായി വിഭജിക്കാം ഒരാൾക്ക് വളരെ വിപുലമായ ഫിഷ്ബോൺ ഡയഗ്രം സൃഷ്ടിക്കാൻ കഴിയും അതിലൂടെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ഒരാൾക്ക് കഴിയണം ഉദാഹരണത്തിന് ഒരു വെബ്സൈറ്റ് പ്രവർത്തന രഹിതമായി ഒരാൾക്ക് സെർവറിലേക്ക് കണക്റ്റുചെയ്യാൻ കഴിയുന്നില്ല ഇത് ഒന്നോ അതിലധികമോ കാരണങ്ങളാൽ സംഭവിക്കാം എല്ലാ കാരണങ്ങളും എനിക്ക് പട്ടികപ്പെടുത്താമോ വെബ്സൈറ്റ് സൃഷ്ടിക്കലും അതുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറും എനിക്ക് പരിചിതമാണെങ്കിൽ എനിക്ക് ഇത് കണ്ടെത്താൻ കഴിയണം ചിലപ്പോൾ ആളുകളുടെ ഗ്രൂപ്പുകൾക്ക് ചർച്ച ചെയ്യാനും മൂലകാരണങ്ങൾ തിരിച്ചറിയാനും കഴിയും ഇത് വളരെ ഫലപ്രദമായ ഉപകരണമാണ് നിങ്ങൾക്ക് ഓരോ കാരണങ്ങളും എടുത്ത് വ്യത്യസ്ത ഉപ കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം ഉദാഹരണത്തിന് വെബ്സർവർ ഓവർലോഡ് ആണ് എന്തുകൊണ്ട് ഇത് അമിതഭാരമാണ് കാരണങ്ങൾ എന്തായിരിക്കാം ഒരാൾക്ക് ഇത് കൂടുതൽ വിശദീകരിക്കാൻ കഴിയും വെൻ ഡയഗ്രാമിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾക്ക് എ ബി എന്നീ രണ്ട് സർക്കിളുകൾ ഉണ്ടെന്ന് ഇവിടെ പറയാം ഇത് എ യൂണിയൻ ബി ആകുമ്പോൾ ഇപ്പോൾ എന്റെ പ്രിയപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് എ അതിനെ ശാസ്ത്രം എന്ന് വിളിക്കുന്നു ബി അതിനെ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നു രണ്ടും തമ്മിൽ പൊതുവായുള്ളത് എന്താണ് എ യുമായി ബന്ധമില്ലാത്ത ഈ സർക്കിളിൽ എനിക്ക് എന്തെങ്കിലും പ്രവർത്തനം ഉൾപ്പെടുത്താമോ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കാവുന്ന എന്നാൽ ശാസ്ത്ര പ്രവർത്തനങ്ങൾ അല്ലാത്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഉദാഹരണത്തിന്എല്ലാ എഞ്ചിനീയറിംഗ് സയൻസ് ഭാഗം ഈ സംയുക്ത ഭാഗമാകാം ശാസ്ത്രത്തിൽ മാത്രമുള്ളതും എന്നാൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമല്ലാത്തതുമായ ചില പ്രവർത്തനങ്ങൾ ഉണ്ട് എനിക്ക് കൂടുതൽ വിപുലീകരിക്കാൻ കഴിയും എനിക്ക് മൂന്ന് സർക്കിളുകൾ വരക്കാൻ കഴിയും ഇവിടെ വീണ്ടും ഈ ഉദാഹരണം തുടരുന്നു സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്താണ് പരസ്പര ബന്ധം ഏത് തരത്തിലുള്ള പ്രവർത്തനം ഇവിടെ മൂന്ന് പേരും ഉൾപ്പെടുന്ന ഈ സാഹചര്യത്തിൽ മറ്റ് കൂട്ടിമുട്ടുന്ന ഭാഗത്തു രണ്ടെണ്ണം മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വിപുലീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഇക്കണോമിക്സ് എന്നിങ്ങനെ നാല് സർക്കിൾ ആക്കാം അതിനാൽ വെൻ ഡയഗ്രം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ കൂടുതൽ കൂടുതൽ സർക്കിളുകൾ ചേർത്ത് ഇത് വളരെ സമ്പന്നമാക്കും ഒരാൾക്ക് സ്പെക്ട്രത്തിന്റെ രൂപത്തിൽ എന്തെങ്കിലും ഗ്രാഫിക്കായി പ്രതിനിധീകരിക്കാൻ കഴിയും അത് ഒരു ഗ്രാഫിക് അവതരണമാണ് ഏതൊക്കെ എവിടെയാണ് എന്ന് കൃത്യമായി അത് മനസിൽ ഉറപ്പിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടെ മൈക്രോവേവിന് കീഴിൽ നമ്മൾ മനുഷ്യരെ ചേർത്തു എന്താണ് ഇതിനർത്ഥം തരംഗദൈർഘ്യം ഇവിടെ തരംഗദൈർഘ്യം മനുഷ്യന്റെ ക്രമത്തിലാണ് അത് പോലെ സ്പെക്ട്രത്തിലെ ഗാമാ രശ്മികൾ വരെയുള്ള എല്ലാ ഉദാഹരണങ്ങളും നിങ്ങൾക്ക് ഉണ്ട് ഇത് ഒരു നല്ല പ്രാതിനിധ്യമാണ് അവയെ ആകർഷകമാക്കാൻ നിറങ്ങൾ ഉപയോഗിക്കുന്നു നമുക്ക് പരിചിതമായ കാര്യങ്ങളാൽ വലുപ്പങ്ങളെ പ്രതിനിധീകരിക്കുന്നു അതുപോലെ കാലക്രമേണ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിലെ വിവിധ സമയങ്ങളിൽ ഉണ്ടായ എല്ലാ നാഴികക്കല്ലുകളും ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ടൈംലൈനുകളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും മാത്രമല്ല അതിലെ നാഴികക്കല്ലുകൾ തിരിച്ചറിയാനും എനിക്ക് കഴിയും അതിനാൽ ആ രീതിയിൽ ഒരു പ്രോജക്റ്റ് ആസൂത്രണം ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കാം പ്രത്യേകിച്ചും ഒരു കൂട്ടം ആളുകൾ അത് നടപ്പിലാക്കുന്നതിൽ ഏർപ്പെടുമ്പോൾ വിവിധ ഘട്ടങ്ങളിൽ നാഴികക്കല്ലുകൾ തിരിച്ചറിയുന്നത് ഒരു പ്രോജക്റ്റ് ഗ്രാഫിക്കായി അവതരിപ്പിക്കുന്നതിനോ ആസൂത്രണം ചെയ്യുന്നതിനോ ഉള്ള ഒരു നല്ല മാർഗമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രോജക്റ്റ് മാനേജുമെന്റിനായി നിങ്ങൾക്ക് ഉപകരണങ്ങൾ ലഭ്യമാണ് മറ്റൊരു തരം ഗ്രാഫിക് ഉപകരണം സ്റ്റോറിബോർഡ് ആണ് ഒരു സംവേദനാത്മക മീഡിയ സീക്വൻസ് പ്രീ വിഷ്വലൈസ് ചെയ്യുന്നതിനായി ചിത്രങ്ങളുടെ ക്രമത്തിൽ പ്രദർശിപ്പിക്കുന്ന ഒരു ഗ്രാഫിക് ഓർഗനൈസറാണ് സ്റ്റോറിബോർഡ് നിങ്ങളുടെ കാര്യം ചിത്രങ്ങളുടെ ഒരു ശ്രേണി അല്ലെങ്കിൽ വാചകത്തിന്റെ സീക്വൻസായി അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ അത് കമ്പ്യൂട്ടർ സ്ക്രീൻ പ്രിന്റൌട്ടുകളുടെ ഒരു ശ്രേണിയായിരിക്കാം പ്രത്യേക സോഫ്റ്റ്വെയർ വികസനത്തിനായുള്ള സവിശേഷതകൾ തിരിച്ചറിയുന്നതിന് സ്റ്റോറിബോർഡ് ഉപയോഗിക്കുന്നു സ്പെസിഫിക്കേഷൻ ഘട്ടത്തിൽ ഉപയോക്തൃ അനുഭവത്തിന്റെ പ്രധാന ഘട്ടങ്ങൾ വ്യക്തമാക്കുന്നതിന് സോഫ്റ്റ്വെയർ പ്രദർശിപ്പിക്കുന്ന സ്ക്രീനുകൾ പേപ്പറിൽ വരയ്ക്കും അല്ലെങ്കിൽ പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിക്കും സോഫ്റ്റ്വെയർ വികസനത്തിന് ഇത് വളരെയധികം ഉപയോഗിക്കുന്നു മൈൻഡ് മാപ്പുകൾ അദ്ധ്യാപകന് ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ ഉപയോഗിക്കാനുള്ള പ്രധാന വിഷ്വൽ ഉപകരണങ്ങളാണ് മൈൻഡ് മാപ്പുകൾ ഒരു പ്രധാന ആശയത്തിന്റെ ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ക്ലാസ്സിൽ ഞാൻ അവതരിപ്പിക്കുന്ന ഒരു ആശയത്തെക്കുറിച്ചോ ഒരു വസ്തുവിനെക്കുറിച്ചോ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് വിദ്യാർത്ഥികളോട് ചോദിക്കാൻ കഴിയും എനിക്ക് ഒരു മൈൻഡ് മാപ്പ് നിർമ്മിക്കുന്നത് തുടരാം കൂടാതെ ഒരു കാര്യത്തെ മറ്റൊന്നുമായി മൈൻഡ് മാപ്പ് ഉപയോഗിച്ച് എങ്ങനെ ബന്ധപ്പെടുത്താമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് ചില ബന്ധങ്ങൾ തെറ്റായി വരച്ചാൽ അത് തിരിച്ചറിഞ്ഞ് മൈൻഡ് മാപ്പ് ശരിയാക്കി കൊടുക്കാൻ അധ്യാപകന് കഴിയും മൈൻഡ് മാപ്പുകൾ വ്യക്തമായതിനപ്പുറത്തേക്ക് നോക്കാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുന്നു അതിനർത്ഥം ഞാൻ വളരെ ഹാർഡ്കോർ എഞ്ചിനീയറിംഗ് ആശയം കൈകാര്യം ചെയ്യുന്നു തുടർന്ന് എനിക്ക് തികച്ചും വ്യത്യസ്തമായ ഒന്നുമായി ഇത് ലിങ്കുചെയ്യാൻ കഴിഞ്ഞേക്കും ഉദാഹരണത്തിന് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആശയവുമായി ഒരു സ്കെച്ച് പെയിന്റിംഗ് അല്ലെങ്കിൽ സംഗീതം അല്ലെങ്കിൽ നർമ്മം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് എനിക്ക് നോക്കാനാകും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലിങ്ക് സ്ഥാപിക്കാൻ കഴിയുന്നുവെങ്കിൽതലച്ചോറിന്റെ ഭാഷയിൽ നമുക്ക് പറയാൻ കഴിയും നിങ്ങൾ യഥാർത്ഥത്തിൽ ആ അറിവ് നിലനിർത്താനുള്ള സാധ്യത മെച്ചപ്പെടുത്തുന്നു ഒരു മൈൻഡ് മാപ്പ് പല പുസ്തകങ്ങളും സോഫ്റ്റ്വെയർ ടൂളുകളും പ്രോത്സാഹിപ്പിക്കുന്നു പ്രത്യേകിച്ച് ബുസോൺ വൈകാരിക ബുദ്ധിയുടെ ഒരു മൈൻഡ് മാപ്പ് ഇവിടെ കാണിച്ചിരിക്കുന്നു മൊഡ്യൂൾ 1 ൽ നമ്മൾ അഫക്റ്റീവ് ഡൊമൈൻ ചർച്ച ചെയ്തപ്പോൾ വൈകാരിക ഇന്റലിജൻസ് എന്ന് വിളിക്കപ്പെടുന്നവയെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോഗ്നിറ്റീവ് അഫക്റ്റീവ് സൈക്കോമോട്ടോർ എന്നിങ്ങനെ പഠനത്തിന്റെ മൂന്ന് ഡൊമെയ്നുകളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ വൈകാരിക ബുദ്ധി അഫക്റ്റീവ് ഡൊമൈനുമായി ബന്ധപ്പെട്ടതാണ് രണ്ടു വ്യക്തികൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വൈകാരിക ബുദ്ധി കാണിക്കുന്നു തുടർന്ന് എന്താണ് വൈകാരിക ബുദ്ധി എന്ന് നിർവചിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു വൈകാരിക ബുദ്ധിയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് അത്തരം ഡയഗ്രാമുകളുടെ മുഴുവൻ സെറ്റും ഒരാൾക്ക് വരയ്ക്കാൻ കഴിയും നമുക്ക് കാണാനാകുന്നതുപോലെ ഇത് ആക്സണും ഡെൻഡ്രൈറ്റുകളും പോലെയാണ് ഒരു കാര്യം ഉള്ളത് എന്റെ സ്വന്തം വികാരങ്ങളോട് ഞാൻ എങ്ങനെ പ്രതികരിക്കും മറ്റുള്ളവരുടെ വികാരങ്ങളോട് ഞാൻ എങ്ങനെ പ്രതികരിക്കും വൈകാരിക ബുദ്ധി മെച്ചപ്പെടുത്തുന്നതിനായി ഉപയോഗിക്കാവുന്നതോ വികസിപ്പിക്കുന്നതോ ആയ ലഭ്യമായ ഉപകരണങ്ങളും സാങ്കേതികതകളും എന്തൊക്കെയാണ് അത് പോലെ നിങ്ങൾക്ക് വികസിപ്പിക്കുന്നത് തുടരാംനമുക്ക് ഇതുപോലുള്ള മനോഹരമായ ഒരു ഡയഗ്രം സൃഷ്ടിക്കാനും അത് നിങ്ങളുടേതാക്കാനും കഴിയും നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന രീതി അദ്വിതീയമായിരിക്കും തനതായിരിക്കും അധ്യാപകന് ഡയഗ്രം നോക്കുന്നതിലൂടെയും ചർച്ചയിലൂടെയും പിശകുകളൊന്നുമില്ലെന്ന് ഉറപ്പാക്കാൻ കഴിയും അതായത് മറ്റൊന്നുമായി ബന്ധപ്പെട്ട രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് വരുത്തുന്നില്ല ഉദാഹരണത്തിന് ഉത്സാഹം അല്ലെങ്കിൽ മെച്ചപ്പെട്ട ആരോഗ്യം പരിഗണിക്കുക "മെച്ചപ്പെട്ട ആരോഗ്യം വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്" എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒരാൾക്ക് അത് ചർച്ചചെയ്യാം അത് ഒരു പ്രധാന പ്രശ്നമല്ലെന്ന് ബോധ്യപ്പെട്ടാൽ എനിക്ക് അത് ഒന്നുകിൽ അംഗീകരിക്കാം അല്ലെങ്കിൽ അത് മറ്റൊരു തരത്തിൽ വാക്കുകൾ മാറ്റി ഉപയോഗിക്കാം അതായത് എനിക്ക് അത് വീണ്ടും പറയാൻ കഴിയും നല്ല ആരോഗ്യം മാത്രമല്ല മോശം ആരോഗ്യവും എന്റെ വൈകാരിക ബുദ്ധിയെ സ്വാധീനിക്കുമെന്ന് പറയാം അതിനാൽ ഒരാൾക്ക് മൈൻഡ് മാപ്പ് പരിഷ്കരിക്കാനാകും അതുപോലെ മൊഡ്യൂൾ 2 ൽ നമ്മൾ ഇതിനകം കണ്ട മറ്റൊരു ഗ്രാഫിക് ഓർഗനൈസർ കൺസെപ്റ്റ് മാപ്പ് എന്താണെന്നു നോക്കാം കൺസെപ്റ്റ് മാപ്പ് എന്നത് ആശയങ്ങൾ തമ്മിലുള്ള നിർദ്ദേശിത ബന്ധങ്ങളെ ചിത്രീകരിക്കുന്ന ഒരു ഡയഗ്രമാണ് മാത്രമല്ല ഇത് ഒരു മൈൻഡ് മാപ്പിനേക്കാൾ കൂടുതൽ ഘടനാപരമാണ് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ മൈൻഡ് മാപ്പിന് ഒരു സ്വതന്ത്ര ഫോർമാറ്റ് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ വരകൾ വരയ്ക്കുന്നത് തുടരാം അതേസമയം കൺസെപ്റ്റ് മാപ്പ് നന്നായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു ഇതുപോലെ നമ്മൾ പരിഗണിക്കാത്ത കൂടുതൽ ഘടനാപരമായ ഗ്രാഫിക് പ്രാതിനിധ്യങ്ങളുണ്ട് കൺസെപ്റ്റ് മാപ്പ് നിരവധി തലങ്ങളിൽ കോഴ്സ് ലെവൽ കോഴ്സ് ഔട്ട്കം നില യോഗ്യതാ തലം എന്നിവയിൽ വരയ്ക്കാൻ കഴിയും ഇത് വളരെ കുറച്ച് ആശയങ്ങൾ മാത്രം ബന്ധിപ്പിച്ചിരിക്കുന്ന വളരെ വിശദമായതോ ചുരുങ്ങിയതോ ആകാം വിദ്യാർത്ഥികൾക്ക് ഇതിനകം മനസ്സിലായ കാര്യങ്ങളുമായി ലിങ്കുകൾ സൃഷ്ടിക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് ഇത് ഒരു അധ്യാപകന് ഉപയോഗിക്കാൻ കഴിയും ഈ ആശയങ്ങൾ നിങ്ങൾക്ക് പരിചിതമാണെന്ന് നമ്മൾ പറയട്ടെ ഞാൻ ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന ആശയം നിങ്ങൾക്ക് പരിചിതമാണ് വിദ്യാർത്ഥിക്ക് ഇതിനകം അറിയാമായിരുന്ന കാര്യങ്ങൾ എനിക്ക് വിശദീകരിക്കാനും വിദ്യാർത്ഥികൾക്ക് മനസ്സിലായ മുൻ ആശയങ്ങളുമായി പുതിയ ആശയങ്ങൾ ബന്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും കുറിപ്പ് എഴുതുന്നതിനുള്ള ഒരു മാർഗമായി വിദ്യാർത്ഥികൾക്ക് ഒരു കൺസെപ്റ്റ് മാപ്പ് ഉപയോഗിക്കാനും കഴിയും ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന സർക്കിളുകളോ സ്ക്വയറുകളോ ഉപയോഗിച്ച് എനിക്ക് ഒരു ഡയഗ്രം വരയ്ക്കാനും ലിങ്കുചെയ്യുന്ന ചില ശൈലികൾ ഉപയോഗിച്ച് അവ കണക്റ്റുചെയ്യാനും കഴിയും അദ്ധ്യാപകൻ ക്ലാസ് മുറിയിൽ വിവരങ്ങൾ അവതരിപ്പിക്കുന്നതിനാൽ വിദ്യാർത്ഥിക്ക് അതോടൊപ്പം തന്നെ ഒരു കൺസെപ്റ്റ് മാപ്പ് നിർമ്മിക്കുന്നത് തുടരാം അതായത് അവൻഅവൾ അത് നോക്കുന്ന രീതിയിൽ തുടർന്ന് വിദ്യാർത്ഥിക്ക് അത് സഹപാഠിയോടോ അധ്യാപകനോടോ ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിയും ഒരു ആശയം താഴേക്കുള്ള ബ്രാഞ്ചിംഗ് ശ്രേണി ഘടനയിൽ ലേബൽ ചെയ്ത അമ്പടയാളങ്ങൾ ഉപയോഗിച്ച് ഒന്ന് മറ്റൊന്നിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് നോവാക്കും സഹപ്രവർത്തകരും ആണ് കണ്ടെത്തിയത് 1970 മുതൽ അവർ വിദ്യാഭ്യാസത്തിൽ Cmap ഉപകരണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് സൌജന്യമായി ഡൌൺലോഡ് ചെയ്യാൻ കഴിയും ഒരാൾക്ക് വേഗത്തിൽ പഠിക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന വളരെ ലളിതമായ ഉപകരണങ്ങളിൽ ഒന്നാണിത് ഇവിടെ കാണിച്ചിരിക്കുന്ന കൺസെപ്റ്റ് മാപ്പ് വൈദ്യുതകാന്തികതയെക്കുറിച്ചുള്ള ഒരു കോഴ്സാണ് വൈദ്യുതകാന്തികത എന്താണ് കൈകാര്യം ചെയ്യുന്നത് പ്രകൃതിയിൽ സ്ഥിരതയുള്ളതും സ്ഥിരമായ വേഗതയിൽ സഞ്ചരിക്കുന്നതുമായ വൈദ്യുത ചാർജുകളാണ് അവ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അവ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതുമാവാം സ്റ്റാറ്റിക് ചാർജുകൾ ഇലക്ട്രിക് ഫീൽഡുകൾ ഉൽപാദിപ്പിക്കുന്നു അതിൽ നിന്ന് എനിക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും ഇലക്ട്രിക് ഫോഴ്സ് ഫ്ലക്സ് ഫ്ലക്സ് ഡെൻസിറ്റി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എനർജി ഡെൻസിറ്റി തുടങ്ങിയവയാണ് ഇലക്ട്രിക്ക് ഫീൽഡിന്റെ സവിശേഷത ഒരു കാഥോഡ് റേ ട്യൂബ് അല്ലെങ്കിൽ ഡിഫിബ്രില്ലേറ്റർ അല്ലെങ്കിൽ പേസ് മേക്കർ പഠിക്കാനും രൂപകൽപ്പന ചെയ്യാനും ഈ ഇലക്ട്രിക് ഫീൽഡ് തത്വങ്ങൾ പ്രയോഗിക്കുന്നു കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള ഒരു മാർഗമായി കൺസെപ്റ്റ് മാപ്പ് ഉപയോഗിക്കുന്നു അവസാനമായി ഇത് രൂപകൽപ്പന ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സ് വിദ്യാർത്ഥികളോട് ഈ ഫോമിൽ അവതരിപ്പിക്കാൻ കഴിയും ഇത് ഇതുപോലെ അവതരിപ്പിച്ചുകഴിഞ്ഞാൽ വൈദ്യുതകാന്തികതയെക്കുറിച്ചുള്ള കോഴ്സിന്റെ മുഴുവൻ കാര്യങ്ങളും വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഗ്രാഫിക്കായി പതിഞ്ഞിരിക്കുന്നു ഒരു കോഴ്സിന്റെ കൺസെപ്റ്റ് മാപ്പ് എന്നത് കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നതിനും സമപ്രായക്കാരുമായി ചർച്ച ചെയ്യുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവതരിപ്പിക്കുന്നതിനുമുള്ള ശക്തമായ ഉപകരണമാണെന്ന് ഞാൻ കരുതുന്നു ഒരു കോഴ്സ് നടത്തുന്നതിന് ഫലപ്രദമായ ഉപകരണമായും ഇത് ഉപയോഗിക്കാം മൂന്ന് ഭാഗങ്ങളുണ്ട് സ്റ്റാറ്റിക് ചാർജുകൾ ചലിക്കുന്ന ചാർജുകൾ ത്വരിതപ്പെടുത്തുന്ന ചാർജുകൾ ഓരോ തരം ഇലക്ട്രിക് ചാർജിനും നമുക്ക് രണ്ടോ മൂന്നോ കോഴ്സ് ഔട്ട്കംസ് എഴുതാം ഓരോന്നിനുംമൂന്ന് വച്ച് നമ്മൾ എഴുതിയാൽ ഞാൻ ഒൻപത് കോഴ്സ് ഔട്ട്കംസ് എഴുതുന്നു അവ തുല്യമായി വിതരണം ചെയ്യേണ്ടതില്ല ഈ കൺസെപ്റ്റ് മാപ്പിൽ നമ്മൾ ഒരു ബോക്സിൽ ഒരു ആശയം മാത്രമല്ല ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക അങ്ങനെയല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ മാപ്പ് നിയന്ത്രിക്കാനാകാത്തവിധം വളരും ഒരു ബോക്സിനുള്ളിലുള്ള എല്ലാ ഘടകങ്ങളും ആശയങ്ങളാണ് ഒരേ തലത്തിൽ ഒന്നിലധികം ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്നതിന് ഒരു ബോക്സ് ഉപയോഗിക്കാം നമ്മൾ ചില ഗ്രാഫിക് ഓർഗനൈസറുകൾ കണ്ടു പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഒരാൾക്ക് ഇൻറർനെറ്റിൽ ധാരാളം കാര്യങ്ങൾ ലഭ്യമാണ് കൂടാതെ ഒരാൾക്ക് ഉചിതമായ ഗ്രാഫിക് ഓർഗനൈസറിനെ ഉപയോഗിക്കാൻ കഴിയുംഅത് ഇൻസ്ട്രക്ഷന്റെ ഭാഗമായും മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് അവന്റെ ഗ്രാഹ്യം പര്യവേക്ഷണം ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണം അങ്ങിനെയൊക്കെ വിദ്യാർത്ഥി ഉൾപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ വരുന്നു പ്രധാനമായും കുറിപ്പ് തയ്യാറാക്കലും സംഗ്രഹവും നിങ്ങളുടെ വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിൽ നിന്ന് പ്രധാന പോയിന്റുകൾ പിടിച്ചെടുക്കുന്നതിലൂടെ വലിയ ആശയം കണ്ടെത്തുന്ന പ്രക്രിയയാണിത് ഒന്നുകിൽ നിങ്ങൾ ഒരു പ്രിസിസ് ചെയ്യുക ഒരു വിഷയത്തിന്റെ അവസാനത്തിൽ ഒരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് പ്രാതിനിധ്യം സൃഷ്ടിക്കുക പഠിതാക്കൾ തയ്യാറാക്കിയ കുറിപ്പുകൾ പകർത്തിയ കുറിപ്പുകളേക്കാളും പുസ്തകങ്ങളേക്കാളും ഫലപ്രദമാണ് ഉദാഹരണത്തിന് അധ്യാപകന് ബോർഡിൽ എഴുതാനോ ചില വിവരങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാനോ കഴിയും വിദ്യാർത്ഥി അത് സ്വന്തം കുറിപ്പുകളിലേക്ക് തിരികെ എഴുതിയാൽ അത് കുറിപ്പ് തയ്യാറാക്കലല്ല വിഷയം മനസിലാക്കിയ രീതിയുടെ ഒരു സംഗ്രഹം വിദ്യാർത്ഥി എഴുതേണ്ടതുണ്ട് മൊഡ്യൂൾ 1 ൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നമ്മൾ കോഗ്നിറ്റീവ് ലെവലുകളെക്കുറിച്ച് സംസാരിച്ചു ആറ് കോഗ്നിറ്റീവ് ലെവലുകൾ പരിശോധിച്ചു ഒപ്പം ബ്ലൂം കോഗ്നിറ്റീവ് ലെവലുകൾക്കനുസരിച്ച് മനസിലാക്കുക എന്ന വിജ്ഞാന പ്രക്രിയയുടെ ഒരു ഉപ പ്രക്രിയയാണ് നോട്ട് നിർമ്മാണവും സംഗ്രഹവും കുറിപ്പ് തയ്യാറാക്കലും സംഗ്രഹവും തികച്ചും ഫലപ്രദമാണ് മാത്രമല്ല ഇത് എല്ലാ സന്ദർഭങ്ങളിലും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഒരു ഇൻസ്ട്രക്ഷണൽ ഘടകമുണ്ട് 2 മിനിറ്റ് പേപ്പർ സംഗ്രഹത്തിന്റെ ഉദാഹരണമാണ് ഇൻസ്ട്രക്ടർക്ക് എല്ലാ വിദ്യാർത്ഥികളോടും 2 മിനിറ്റ് പേപ്പർ എഴുതാൻ ആവശ്യപ്പെടാം വിദ്യാർത്ഥികൾ എഴുതിയ 2 മിനിറ്റ് പേപ്പറുകൾ ശേഖരിക്കുന്നതിന് നിങ്ങൾക്ക് ഗൂഗിൾ ഡോക്സ് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും മാത്രമല്ല അവ അവലോകനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ ഫീഡ്ബാക്ക് നൽകാൻ കഴിയും കുറിപ്പ് നിർമ്മിക്കുന്നതിനും സംഗ്രഹിക്കുന്നതിനുമായി ഒരു അധ്യാപകന് ടെംപ്ലേറ്റ് രൂപകൽപ്പന ചെയ്യാൻ കഴിയും അയാൾക്ക് ഒരു ലളിതമായ പട്ടിക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചാർട്ട് സൃഷ്ടിച്ച് അത് പൂരിപ്പിക്കാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടാൻ കഴിയും വിഷ്വലൈസ്ഡ് നോട്ട് നിർമ്മാണം ആണ് മറ്റൊന്ന് വിഷ്വൽ ഇമേജറിയുമായി ഭാഷയെ ബന്ധപ്പെടുത്താൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി ഇത് വളരെ ശക്തമായിരിക്കും ക്രമം പാറ്റേണുകൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ കാണിക്കുന്ന ചിത്രങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ച് വാക്കാലുള്ള കുറിപ്പുകൾ ലിങ്കുചെയ്യാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാൻ അധ്യാപകർക്ക് കഴിയും ഇവയ്ക്കെല്ലാം വീണ്ടും വളരെ ആകർഷകമായ ഈ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ഐസിടി ഉപകരണങ്ങൾ ഉപയോഗിക്കാം ഇവയിലേതെങ്കിലും ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് ധാരാളം സമയം ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അവ പതിവായി ഉപയോഗിക്കാൻ കഴിയില്ല ഈ കാലത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്മാർട്ട്ഫോണുകളോ ലാപ്ടോപ്പുകളോ ഉണ്ടെന്ന് അനുമാനിക്കാം ആവശ്യമായ ഐസിടി ഉപകരണം ടീച്ചർക്ക് പരിചിതമാണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ ഉപയോഗിക്കാൻ കഴിയും മറ്റൊരു ഇൻസ്ട്രക്ഷണൽ ഘടകം സജീവമാക്കുക ഇത് പുതിയ കാര്യമല്ല കുട്ടി എവിടെയാണ് നില്കുന്നത് എന്ന് നോക്കി അവിടെ നിന്ന് ആരംഭിക്കുന്നത് വളരെക്കാലമായി വിദ്യാഭ്യാസത്തിന്റെ ഒരു തത്വമാണ് ഇത് പ്രധാനമായും സ്കൂൾ വിദ്യാഭ്യാസത്തിലാണ് ഉപയോഗിച്ചിരുന്നത് നിങ്ങൾ ഇൻറർനെറ്റിൽ നോക്കുകയാണെങ്കിൽ സജീവമാക്കൽ എന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ധാരാളം അറിവുകൾ ഉണ്ട് പക്ഷേ എല്ലാ ഉദാഹരണങ്ങളും കൂടുതലും സ്കൂൾ വിദ്യാഭ്യാസത്തിന്റേതാണ് എങ്ങനെയെങ്കിലും പഠിതാക്കൾ പക്വത പ്രാപിക്കുമ്പോൾ ഇൻസ്ട്രക്ഷനു മുമ്പായി പ്രസക്തമായ അനുഭവം നൽകുന്നത് ഇനി ആവശ്യമില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തോന്നുന്നു അത് നല്ലതായിത്തീർന്നു ഉന്നതവിദ്യാഭ്യാസത്തിൽ നിലവിലുള്ള ഏതെങ്കിലും ഇൻസ്ട്രക്ഷണൽ പ്രവർത്തനങ്ങളുമായി ഈ പ്രവർത്തനം അവിഭാജ്യമല്ലാത്തതിനാൽ സജീവമാക്കുക എന്നത് നിലവിൽ ഭൂരിപക്ഷം ഫാക്കൽറ്റികളും ഉപയോഗിക്കുന്നില്ല പുതിയ അറിവ് രൂപപ്പെടുത്തുന്നതിന് ഉപയോഗിച്ചേക്കാവുന്ന അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള മുമ്പത്തെ മാനസിക മാതൃകകൾ പഠിതാക്കൾക്ക് ഇല്ല അല്ലെങ്കിൽ ഓർമ്മയില്ല നമ്മൾ എല്ലായ്പ്പോഴും പറഞ്ഞ ഒരു കാര്യം നമ്മൾ പുതിയ അറിവ് എടുക്കുകയും പ്രവർത്തന മെമ്മറിയിൽ പ്രോസസ്സ് ചെയ്യുകയും തുടർന്ന് നമുക്ക് ഇതിനകം അറിയാവുന്നതുമായി ലിങ്കുചെയ്യാൻ ശ്രമിക്കുകയുമാണ് നമുക്ക് ഇതിനകം അറിയാമായിരുന്നത് എങ്ങനെ ലിങ്കുചെയ്യാമെന്നുള്ളത് ഒരു പ്രധാന പ്രവർത്തനമാണ് ആ പരിധി വരെ നിങ്ങൾക്ക് ലിങ്കുചെയ്യാനാകുന്ന കാര്യങ്ങൾ ഏതെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതാണ് സജീവമാക്കൽ പ്രക്രിയ നിങ്ങൾ തികച്ചും പുതിയൊരു ആശയത്തിലേക്ക് ചാടുകയാണെങ്കിൽ വിദ്യാർത്ഥിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു കാര്യം വാചാലമായ പഠനം മാത്രമാണ് ഓർമ്മിച്ച് പുനർനിർമ്മിക്കുക അതിനാൽ പുതിയ അറിവ് വിദ്യാർത്ഥികൾക്ക് ഇതിനകം അറിയാവുന്നതുമായി ബന്ധിപ്പിക്കുന്ന പ്രക്രിയയിലൂടെ നിങ്ങൾ കടന്നുപോകേണ്ടതുണ്ട് ഇത് പഠന തത്വമായി പരിവർത്തനം ചെയ്തു ഇത് ഇനിപ്പറയുന്ന യൂണിറ്റായ M3U8 ൽ വിശദീകരിക്കാം ഇപ്പോൾ മെറിലിന്റെ ആദ്യ പഠന തത്ത്വങ്ങൾ അഭിസംബോധന ചെയ്യാൻ പോകുന്നു മുൻ അറിവിന്റെ സജീവമാക്കൽ ഈ തത്വങ്ങളിലൊന്നാണ് അത് അടുത്ത യൂണിറ്റിൽ നോക്കാം സജീവമാക്കൽ തത്വം ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി നോക്കാം പഠിതാക്കൾക്ക് ഇതിനകം അറിയാമായിരുന്നതിൽ നിന്നും പഠനം ആരംഭിക്കേണ്ടതുണ്ട് ഇത് ഒരു ലളിതമായ പ്രസ്താവനയാണ് ലോകത്തിൽ നിലവിലുള്ള മാനസിക മാതൃകകളെ അടിസ്ഥാനമാക്കി പഠനം വളർത്തിയെടുക്കേണ്ടതുണ്ട് അത് അങ്ങനെയാണെങ്കിലും നമ്മൾ സാധാരണയായി അങ്ങനെ ചെയ്യുന്നില്ല അവിടെയാണ് മുൻ അറിവിന്റെ സജീവമാക്കൽ പുതിയ വിവരങ്ങളിലേക്ക് കണക്ഷൻ ഉണ്ടാക്കാൻ ഒരു പഠിതാവിനെ സഹായിക്കുന്നത് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് എന്താണ് അറിയുന്നതെന്ന് കണ്ടെത്താൻ ഒരു പരീക്ഷ അല്ലെങ്കിൽ ക്വിസ് നടത്തുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്നാൽ അത്തരം അറിവ് മുൻ അറിവിന്റെ സജീവമാക്കൽ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ല ആക്റ്റിവേഷൻ തത്വം മെറിൽ പറയുന്നതനുസരിച്ച് പുതിയ കഴിവുകളുടെ അടിത്തറയായി പഠിതാക്കൾ അവരുടെ മുൻ അറിവുകളുടെയും നൈപുണ്യത്തിന്റെയും മുൻ മാനസിക മാതൃക സജീവമാക്കുമ്പോൾ പഠനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും സ്വന്തമായി ചെയ്യുമ്പോൾ പഠിതാക്കൾ പലപ്പോഴും അനുചിതമായ ഒരു മാനസിക മാതൃക സജീവമാക്കുന്നു കാരണം നമ്മൾ പറഞ്ഞതുപോലെ പുതിയ അറിവിനെ നിങ്ങൾക്ക് ഇതിനകം തന്നെ അറിയാവുന്ന ഒന്നുമായി ബന്ധിപ്പിക്കുന്നതാണ് പഠനം നിങ്ങൾ ഇതിൽ ഒരു ഗൈഡഡ് അനുഭവത്തിലൂടെ കടന്നുപോകുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെ തെറ്റായ ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് ബന്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അനുചിതമായ ഒരു മാനസിക മാതൃക നിർമ്മിക്കുന്നത് പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്നു അത് പഠിതാക്കൾ ഒരു പുതിയ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ വരുന്ന പിശകുകളായി കാണപ്പെടുന്നു ഇത് പലപ്പോഴും സംഭവിക്കുന്നു ന്യൂട്ടന്റെ ചലനനിയമങ്ങളിൽപ്പോലും ചില ലളിതമായ കാര്യങ്ങളെക്കുറിച്ച് പോലും ആളുകൾ ചില തെറ്റിദ്ധാരണകൾ ശേഖരിച്ചതെങ്ങനെയെന്ന് നിങ്ങൾ നിരവധി ഉദാഹരണങ്ങൾ കണ്ടിരിക്കണം മുൻകാലത്തുള്ള പ്രസക്തമായ അനുഭവങ്ങൾ തിരിച്ചുവിളിക്കാൻ പഠിതാക്കളെ നയിക്കുന്നതും പരിഗണനയിലുള്ള പ്രശ്നത്തിൻറെ പ്രസക്തിക്കായി ഈ ശേഖരം പരിശോധിക്കുന്നതും ഉചിതമായ മാനസിക മാതൃക സജീവമാക്കുന്നതിന് സഹായിക്കുകയും അത് വഴി പരസ്പരബന്ധിതമായ ഒരു പുതിയ കൂട്ടം കഴിവുകൾ നേടാൻ സഹായിക്കുകയും ചെയ്യും സജീവമാക്കുന്നതിന്റെ ഉദ്ദേശ്യത്തെക്കുറിച്ചും സജീവമാക്കൽ പ്രക്രിയയെക്കുറിച്ചും പറയുന്ന രീതിയാണിത് സജീവമാക്കുന്ന ചില തന്ത്രങ്ങൾ പ്രതിഫലനവും റെക്കോർഡിംഗും ബ്രെയിൻ സ്റ്റോമിങ് ചെറിയ ഗ്രൂപ്പ് ചർച്ച കെഡബ്ല്യുഎൽ അറിയുക ആഗ്രഹിച്ച പഠിച്ച തന്ത്രം മൂന്ന് നിരകളുള്ള ഒരു ലളിതമായ പട്ടിക സൃഷ്ടിക്കുകകോളം ശീർഷകങ്ങൾ നിങ്ങൾക്കറിയാവുന്നതെന്താണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചത് നിങ്ങൾ എന്താണ് പഠിച്ചത് എന്നിങ്ങനെ അതിലേക്ക് എഴുതാൻ ആരംഭിക്കുക ഒരാൾക്ക് കൺസെപ്റ്റ് മാപ്പുകൾ ഉപയോഗിക്കാം ഒരു പ്രശ്നം പോസ്റ്റുചെയ്യാം അല്ലെങ്കിൽ ഒരു രംഗം ഈ വിവരണത്തെ അടിസ്ഥാനമാക്കി അവതരിപ്പിച്ച ആശയത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് എന്തറിയാം എന്ന് കണ്ടെത്തുക ഡാറ്റ ശേഖരിച്ചുകഴിഞ്ഞാൽ ഉചിതമായ ഇൻസ്ട്രക്ഷണൽ രീതികളെക്കുറിച്ച് തീരുമാനമെടുക്കാം അതിനാൽ ഇവിടെ ഒരു സംവേദനാത്മക പ്രക്രിയയുണ്ട് നിങ്ങൾ ഒരു പ്രശ്നം അവതരിപ്പിക്കുകയും പ്രതികരിക്കാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുകയും ചെയ്യുക അവർ എന്ത് പറഞ്ഞാലും നിങ്ങൾ ബോർഡിൽ എഴുതുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്യുന്നതിലൂടെ അത് സ്ക്രീനിൽ വരും ഡാറ്റ ശേഖരിച്ചുകഴിഞ്ഞാൽ അപ്രസക്തമായതോ തെറ്റായ ആശയങ്ങളോ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അവ ഒരുമിച്ച് ചർച്ചചെയ്യാനും ശേഖരിച്ച ഡാറ്റ മെച്ചപ്പെടുത്താനും കഴിയും ഉദാഹരണത്തിന് CONTACT അല്ലെങ്കിൽ PKTandD പ്രയർ നോളജ് ടെസ്റ്റ് ആൻഡ് ഡയഗ്നോസിസ് എന്ന് വിളിക്കുന്ന ചില സോഫ്റ്റ്വെയർ ഉപകരണങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ഈ സജീവമാക്കൽ നടത്താൻ ഒരാൾക്ക് ലളിതമായ ഒരു സോഫ്റ്റ്വെയർ ഉപകരണം സൃഷ്ടിക്കാൻ പോലും കഴിയും ഒരു അധ്യാപകൻ അവയെല്ലാം വീണ്ടും ഉപയോഗിക്കണമെന്ന് ഇതിനർത്ഥമില്ല അവർക്ക് സൌകര്യപ്രദമായത് അല്ലെങ്കിൽ അവരുടെ പ്രത്യേക വിഷയത്തിനും സന്ദർഭത്തിനും ഉചിതമെന്ന് അവർ കരുതുന്ന എന്തും ഉപയോഗിക്കാൻ കഴിയും അഭ്യാസം നിങ്ങളുടെ കോഴ്സ് എടുക്കുന്നതിനുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിൽ ഒരു ഇൻസ്ട്രക്ഷണൽ ഘടകത്തെ ഗ്രാഫിക് ഓർഗനൈസർ കുറിപ്പ് തയ്യാറാക്കൽ സംഗ്രഹിക്കൽ മുൻ അറിവ് സജീവമാക്കൽ എന്നിവയിൽ നിന്ന് എങ്ങനെ ഉപയോഗിക്കാമെന്ന് അവതരിപ്പിക്കുക സാഹചര്യ ഘടകങ്ങൾ കൂടി പരിഗണിക്കുക നിങ്ങൾ ഇതിനകം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിപ്പോർട്ടുചെയ്യാം അല്ലെങ്കിൽ സ്വന്തമായി നിർദേശിക്കാം നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്രാഫിക് ഓർഗനൈസർ എങ്ങനെ ഉപയോഗിക്കുന്നു കുറിപ്പ് തയ്യാറാക്കൽ സംഗ്രഹിക്കൽ അല്ലെങ്കിൽ മുൻ അറിവിന്റെ സജീവമാക്കൽ എന്നിവ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു ഇതൊക്കെ വിശദീകരിക്കുക ഈ പ്രത്യേക ഇമെയിൽ വിലാസത്തിൽ story com അഭാസ്യത്തിന്റെ ഫലങ്ങൾ പങ്കിട്ടതിന് നന്ദി അടുത്ത യൂണിറ്റിൽ മെറിലിന്റെ ആദ്യത്തെ അഞ്ച് പഠന തത്ത്വങ്ങൾ നമ്മൾ പരിശോധിക്കും നിങ്ങൾ ഈ തത്ത്വങ്ങൾ പിന്തുടരുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ നന്നായി പഠിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ ഈ പഠന തത്വങ്ങൾ ശ്രമിക്കുന്നു പഠനത്തിന്റെ ഫലപ്രാപ്തിയുടെ വ്യാപ്തി നിങ്ങൾ ഈ തത്ത്വങ്ങൾ എത്രത്തോളം ഉപയോഗിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി